ഇപ്പോൾ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സിന്റെ അല്ലെങ്കിൽ സോഴ്സ് ഫോളോവറിന്റെ സ്മാൾ സിഗ്നൽ ചിത്രം ഞാൻ സംയോജിപ്പിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കാൻ അനുയോജ്യമായ ഒരു ബയസ് ക്രമീകരണവുമായി നമ്മൾ സമന്വയിപ്പിച്ചു ഇപ്പോൾ ഇൻക്രെമെന്റൽ ചിത്രം ഇതുപോലെ കാണപ്പെടുന്നു ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിൻ ഗേറ്റ് സോഴ്സ് ഇത് തീർച്ചയായും vgs ഉം ലോഡും അവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ട്രാൻസിസ്റ്ററിനായി ബയസ് ക്രമീകരണം സജ്ജമാക്കുമ്പോൾ ചില അധിക ഘടകങ്ങൾ ഉണ്ടാകാമെന്ന് കോമൺ സോഴ്സ് ആംപ്ലിഫയറുമായുള്ള നമ്മളുടെ അനുഭവത്തിൽ നിന്ന് ഇപ്പോൾ നമുക്കറിയാം ഉദാഹരണത്തിന് ഗേറ്റിനെ ബയസ് ചെയ്യുന്നതിന് ചില റെസിസ്റ്ററുകൾ ഉണ്ടാവാം അങ്ങനെ സംഭവിക്കുകയും ചെയ്തേക്കാം അപ്പോൾ അവയുടെ മൂല്യങ്ങളിൽ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടിവരും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം നമുക്ക് ലഭിക്കും ഇപ്പോൾ MOS ട്രാൻസിസ്റ്ററിനെ ബയസ് ചെയ്യുന്നതിന് അനുയോജ്യമായ മാർഗം എന്താണ് നാല് വ്യത്യസ്ത വഴികൾ ഉണ്ട് ഡ്രെയിൻ ഫീഡ്ബാക്ക് ബയസ് സോഴ്സ് ഫീഡ്ബാക്ക് ബയസ് ഡ്രെയിനിൽ സെൻസ് ചെയ്യുക സോഴ്സിലേക്ക് തിരികെ ഫീഡ്ബാക്ക് നൽകുക സോഴ്സിൽ നിന്ന് സെൻസ് നടത്തി ഗേറ്റിലേക്ക് തിരികെ ഫീഡ്ബാക്ക് കൊടുക്കുക ഈ നാലിൽ അവസാനത്തെ രണ്ടെണ്ണം ഡ്രെയിനിൽ സെൻസ് ചെയ്യുക സോഴ്സിലേക്ക് തിരികെ ഫീഡ്ബാക്ക് നൽകുക അല്ലെങ്കിൽ സോഴ്സിൽ സെൻസ് നടത്തുക ഗേറ്റിലേക്ക് തിരികെ ഫീഡ്ബാക്ക് നൽകുക എന്നിവ മറ്റൊരു ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ഘട്ടം ഉൾക്കൊള്ളുന്നു ഞാൻ ഈ സർക്യൂട്ടുകളെ ഒരു ഓപ് ആംപ് ഉപയോഗിച്ച് ചിത്രീകരിച്ചു പക്ഷേ ചില അധിക ആംപ്ലിഫിക്കേഷൻ സ്റ്റേറ്റുകൾ ആവശ്യമുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഡ്രെയിനിൽ നിന്ന് സോഴ്സിലേക്കോ സോഴ്സിൽ നിന്ന് ഗേറ്റിലേക്കോ ഇൻവെർട്ടിങ് ഗെയിൻ ഉണ്ടാകും ഇത് ഇപ്പോൾ വളരെ സങ്കീർണ്ണമാണ് കാരണം എല്ലാത്തിനുമുപരി നമ്മൾ ഒരൊറ്റ ട്രാൻസിസ്റ്റർ സർക്യൂട്ട് നോക്കുകയാണ് മാത്രമല്ല മറ്റൊരു ഓപ് ആംപ് ഉപയോഗിക്കുന്ന ബയസ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ അത്തരം സങ്കീർണ്ണമായ ബയസ് ക്രമീകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ബാക്കിയുള്ള രണ്ടെണ്ണം ഡ്രെയിൻ ഫീഡ്ബാക്കാണ് അവിടെ കറന്റ് സോഴ്സ് ഡ്രെയിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഫീഡ്ബാക്കിനായി ഡ്രെയിൻ ഗേറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കറന്റ് സോഴ്സ് സോഴ്സ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന സോഴ്സ് ഫീഡ്ബാക്ക് ആണ് മറ്റൊന്ന് ഗേറ്റ് ഒരു നിശ്ചിത വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ രണ്ടിനുമിടയിൽ നിങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കും കൂടുതൽ സൌകര്യപ്രദമായതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഇവിടെ ഈ സർക്യൂട്ടിൽ നമ്മുടെ സർക്യൂട്ടിൽ സോഴ്സ് ടെർമിനൽ ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല അതേസമയം കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ അത് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ നമ്മൾ ഈ ആദ്യത്തെ സർക്യൂട്ട് ഡ്രെയിൻ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ സോഴ്സ് ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് ഒരു നിശ്ചിത വോൾട്ടേജുമായി ബന്ധിപ്പിക്കാം എന്നാൽ ഇൻക്രെമെന്റൽ ചിത്രത്തിൽ ഇത് ഗ്രൌണ്ട് ആയിരിക്കും അതിനാൽ എങ്ങനെയെങ്കിലും നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ബയസ് ക്രമീകരണത്തിനായി ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു ഇൻഡക്റ്റർ ഉപയോഗിച്ച് ചെയ്യാനാകുന്ന സ്മാൾ ഇൻക്രെമെന്റൽ ആവശ്യങ്ങൾക്കായി ഇത് ഗ്രൌണ്ടിൽ നിന്ന് ഉയർത്തേണ്ടതുണ്ട് പക്ഷേ ഇത് വീണ്ടും ബുദ്ധിമുട്ടാണ് ഈ രണ്ടാമത്തെ സർക്യൂട്ട് അതിന്റെ സോഴ്സ് എങ്ങനെയാണെങ്കിലും ഗ്രൌണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല അങ്ങനെയാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത് ഇൻക്രെമെന്റൽ ചിത്രത്തിൽ കറന്റ് സോഴ്സ് ഒരു ഓപ്പൺ സർക്യൂട്ട് ആയി മാറുന്നു മാത്രമല്ല സോഴ്സ് ഫ്ളോട്ടിങ്ങ് ആണ് അതാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത് അതിനാൽ സോഴ്സ് ഫോളോവറുമായോ കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറുമായോ ഉപയോഗിക്കാൻ ഏറ്റവും സൌകര്യപ്രദമായ സർക്യൂട്ട് ഇതാണ് അതിനാൽ അതാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കപ്പാസിറ്ററുകളുടെയും ഇൻഡക്റ്ററുകളുടെയും ശരിയായ സംയോജനം ഉപയോഗിച്ച് ബയാസിംഗ് സർക്യൂട്ടുകളുമായി ഏതെങ്കിലും ഇൻക്രെമെന്റൽ ചിത്രം സംയോജിപ്പിക്കാൻ ഇപ്പോൾ സാധ്യമാണ് പക്ഷേ അവയിൽ ചിലത് വളരെ ബുദ്ധിമുട്ടുള്ളതായിത്തീരും കാരണം നമ്മുടെ ലക്ഷ്യം പ്രവർത്തിക്കുന്ന സർക്യൂട്ടുകൾ തിരിച്ചറിയുക മാത്രമല്ല അവ ഏറ്റവും കാര്യക്ഷമമായ മാർഗത്തിൽ ചെയ്യുക എന്നതാണ് ഇപ്പോൾ എല്ലായ്പ്പോഴും ഒരു ഒറ്റ ചോയ്സ് ഉണ്ടെന്ന് ഇതിനർത്ഥമില്ല എന്നാൽ ഈ സാഹചര്യത്തിൽ രണ്ടാമത്തേത് കൂടുതൽ സൌകര്യപ്രദമാണെന്ന് മനസ്സിലാവുകയും അത് ഉപയോഗിക്കുകയും ചെയ്യാം അതിനാൽ ഞാൻ ബയസ് ഭാഗം വീണ്ടും വരയ്ക്കട്ടെ ഇത് കറന്റ് I0 നെ ബയസ് ചെയ്തു എന്ന് പറയട്ടെ ഡ്രെയിൻ ഇവിടെ ഇൻക്രെമെന്റൽ ഗ്രൌണ്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു പക്ഷേ അത് അവിടെ ഗ്രൌണ്ടുമായി ബന്ധിപ്പിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ ഉണ്ടാകാൻ കഴിയില്ല ഡ്രെയിൻ വോൾട്ടേജ് സോഴ്സ് വോൾട്ടേജിന് മുകളിലായിരിക്കണം അതിനാൽ ഇത് ചില നിശ്ചിത വോൾട്ടേജുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും അത് വിതരണ വോൾട്ടേജ് VDD ആണെന്നും പറയട്ടെ ഏത് സാഹചര്യത്തിലും ബയാസിംഗ് സർക്യൂട്ട് വരുമ്പോൾ നമ്മൾ ചെയ്തത് ഇതാണ് എന്ന് ഓർക്കുക ഗേറ്റ് നിശ്ചിത വോൾട്ടേജുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് മുമ്പത്തെപ്പോലെ ഗേറ്റിന്റെ ബയസിനായി മറ്റൊരു dc സോഴ്സ് ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഡ്രെയിൻ വോൾട്ടേജ് എടുക്കുന്നു ഒരു റെസിസ്റ്റീവ് ഡിവൈഡർ ഉപയോഗിച്ച് ഉചിതമായി വിഭജിച്ച് ഗേറ്റിനെ ബയസ് ചെയ്യുന്നു ഇത് തികച്ചും സ്വീകാര്യമായ ക്രമീകരണമാണ് കാരണം ഗേറ്റ് കറന്റ് വരയ്ക്കുന്നില്ല അതിനാൽ R1 R2 എന്നിവയുടെ മൂല്യങ്ങൾ ഏകപക്ഷീയമായി സജ്ജമാക്കാൻ കഴിയും നിങ്ങൾ ഈ വോൾട്ടേജ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഗേറ്റ് കണക്റ്റു ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നത് R2R1R2VDDആയിരിക്കും കാരണം ഗേറ്റ് ഒരു കറന്റും ഉണ്ടാക്കുന്നില്ല അതിനാൽ ഇപ്പോൾ നമുക്ക് ഒരു ട്രാൻസിസ്റ്റർ ഉണ്ട് അത് കറന്റ് Io ബയസ് ചെയ്യുന്നു അത് സാച്ചുറേഷൻ ആണ് ഇപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇൻപുട്ട് സോഴ്സ് അതിലേക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിലേക്ക് ലോഡും ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിലേക്കുള്ള ലോഡും ഇപ്പോൾ നമ്മൾ ഇത് നിരവധി തവണ ചെയ്തു ഇത് വളരെ എളുപ്പമാണ് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നമുക്ക് സിഗ്നൽ സോഴ്സ് vi ഉണ്ട് ഇപ്പോൾ ഞാൻ ഇതിനെ എങ്ങനെ ബന്ധിപ്പിക്കും ഇതുവരെ എല്ലാ സർക്യൂട്ടുകൾക്കും ഞാൻ ഉപയോഗിച്ചിരുന്ന നിയന്ത്രണം വീണ്ടും ഉപയോഗിക്കും ഏറ്റവും കുറഞ്ഞ സിഗ്നൽ ആവൃത്തി പൂജ്യത്തേക്കാൾ വലുതാണ് അതായത് നമുക്ക് ഒരു dc സിഗ്നലിൽ താൽപ്പര്യമില്ല ഇതിന് കുറച്ച് മിനിമം ആവൃത്തി ഉണ്ട് അത് ഒരു കിലോ ഹെർട്സ് ആകാം അത് ഒരു ഹെർട്സ് ആകാം അത് ഒരു മെഗാഹെർട്സ് ആകാം എന്തായാലും അത് പൂജ്യമല്ല അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് കപ്പാസിറ്റീവ് കപ്ലിംഗ് ഉപയോഗിച്ച് വോൾട്ടേജ് ഡിവൈഡറിൽ നിന്ന് ലഭിച്ച dc മൂല്യവും സോഴ്സിൽ നിന്ന് ലഭിച്ച സിഗ്നലും സംയോജിപ്പിക്കാം അതിനാൽ ഞാൻ ഇത് ചെയ്യുന്നു ഈ ചിത്രം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതമായിരിക്കണം ഞാൻ എങ്ങനെ ലോഡ് ബന്ധിപ്പിക്കും ലോഡ് സോഴ്സ് ടെർമിനലിനും ഗ്രൌണ്ടിനും ഇടയിൽ ദൃശ്യമാകണം അതിനാൽ ഞാൻ ഇത് ജോടിയാക്കുന്നു കാരണം ഒന്നാമതായി ഞാൻ ആവർത്തിച്ച് പറഞ്ഞതുപോലെ ഇത് ഒരു റെസിസ്റ്റൻസ് മാത്രമല്ല പിന്നീട് വരുന്ന കാര്യങ്ങളുടെ പ്രാതിനിധ്യം മാത്രമാണ് എന്നാൽ ഇത് ഒരു റെസിസ്റ്റൻസ് മാത്രമായിരുന്നെങ്കിൽ പോലും നിങ്ങൾ അത് അവിടെ ബന്ധിപ്പിച്ചാൽ എന്തുസംഭവിക്കും ഇവിടെ കുറച്ച് വോൾട്ടേജ് ഉണ്ടാകുംMOS ട്രാൻസിസ്റ്ററിലൂടെയുള്ള കറന്റ് I0 ആയിരിക്കില്ല അത് I0 ഉം റസിസ്റ്ററിലുള്ള കറന്റും ചേർന്നതാണ് അതിനാൽ ബയസ് മാറാൻ സാധ്യതയുണ്ട് അതിനാൽ നമുക്ക് അത് ആവശ്യമില്ല അതിനാൽ ലോഡ് റെസിസ്റ്റൻസ് RL നെ ബന്ധിപ്പിക്കുന്നതിനുള്ള ശരിയായ മാർഗ്ഗം ഒരു കപ്പാസിറ്റർ C2 ലൂടെ ac കപ്ലിംഗ് ആണ് ഇപ്പോൾ നമുക്ക് ട്രാൻസിസ്റ്റർ ബയസുമുണ്ട് നമ്മൾ ഇൻപുട്ട് കണക്റ്റുചെയ്തു കൂടാതെ നമ്മൾ ഔട്ട്പുട്ടും എടുത്തിട്ടുണ്ട് അതിനാൽ ഈ സർക്യൂട്ട് സോഴ്സ് ഫോളോവറിന്റെ അല്ലെങ്കിൽ കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിന്റെ അല്ലെങ്കിൽ ഏകദേശം ഒന്നിന്റെ ഗൈൻ ഉള്ള വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ന്റെ പൂർണ്ണ ഡയഗ്രമാണ് ഇപ്പോൾ കറന്റ് Io തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അതായത് gmRL 1 തീർച്ചയായും ഔട്ട്പുട്ട് ഇവിടെയുണ്ട് ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് ഇത് പ്രാഥമിക ഘട്ടങ്ങളിലൊന്നായി കാണിക്കുന്നത് വളരെ സാധാരണമാണ് നിങ്ങൾ കോമൺ സോഴ്സ് ആംപ്ലിഫയറും തുടർന്ന് കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറും മറ്റും കാണിക്കുന്നു എന്നാൽ ഇതിനെ ഫീഡ്ബാക്ക് ക്രമീകരണമായി ചിന്തിക്കാൻ നമ്മൾ താൽപ്പര്യപ്പെടുന്നു കാരണം ഈ ഘട്ടത്തിന്റെ ഗൈൻ ഉണ്ടാക്കാൻ ഫീഡ്ബാക്ക് അത്യാവശ്യമാണ് vovi1 ഇപ്പോൾ ഇവിടെ പ്രധാന കാര്യം ഇത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതിന്റെ ഗൈൻ gmRL ആണ് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും RL1gm സജ്ജമാക്കാനും ഇത് 1 ന് തുല്യമാക്കാനും കഴിയും പക്ഷേ RL ന്റെ മൂല്യം മാറുകയാണെങ്കിൽ എന്തു സംഭവിക്കും നമ്മൾ മറ്റൊരു ലോഡ് റെസിസ്റ്റൻസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഗൈൻ മാറും അതുപോലെ താപനില gm മാറിയാൽ ഗൈൻ മാറുകയും ചെയ്യും അതേസമയം നമ്മുടെ സോഴ്സ് ഫോളോവർ അല്ലെങ്കിൽ കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിൽ vovigm1gmRL നമ്മൾ gmRL1 തിരഞ്ഞെടുക്കുന്നു നിങ്ങൾ ഈ അവസ്ഥയെ തൃപ്തിപ്പെടുത്തുന്നിടത്തോളം RL അല്പം മാറുകയാണെങ്കിൽ ഗൈൻ ഒന്നായിരിക്കും ഗൈൻ ഒന്നിനടുത്തായിരിക്കും RL ന്റെ കൃത്യമായ മൂല്യം പ്രശ്നമല്ല ഡിനോമിനേറ്ററിലെ gmRL 1 ആണെങ്കിൽ gmRL നെ അപേക്ഷിച്ച് 1 വളരെ കുറവാണ് ഈ ഗൈൻ 1 ന് അടുത്തായിരിക്കും താപനിലയും മറ്റും കാരണം gm അല്പം മാറുകയാണെങ്കിൽ വീണ്ടും ഒന്നും സംഭവിക്കുന്നില്ല കാരണം ഈ gmRL 1 ഉം ഗൈൻ 1 ന് അടുത്തായിരിക്കും അതിനാൽ കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഫീഡ്ബാക്കും ഫീഡ്ബാക്കില്ലാത്ത ഒരു കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറും തമ്മിൽ ഗുണപരമായ വ്യത്യാസമുണ്ട് ഫീഡ്ബാക്കുള്ള സർക്യൂട്ട് കോമൺ ഡ്രെയിൻ ആംപ്ലിഫയർ ലോഡ് സോഴ്സ് അവസ്ഥകൾക്കും ഓപ്പറേറ്റിംഗ് പോയിന്റിനും MOS ട്രാൻസിസ്റ്ററിന്റെ ചെറിയ സിഗ്നൽ പാരാമീറ്ററുകൾക്കും വളരെ സെൻസറ്റിവ് അല്ല അതിനാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് നമ്മൾ ആദ്യം സമന്വയിപ്പിച്ച സോഴ്സ് ഫോളോവറിന്റെ സ്മാൾ സിഗ്നൽ ചിത്രവും അനുയോജ്യമായ ബയസ് ക്രമീകരണങ്ങളുമായി ഇത് സംയോജിപ്പിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് ലഭിച്ച പൂർണ്ണ സർക്യൂട്ട് ഡയഗ്രാമും ഞാൻ ഇവിടെ ഇട്ടു ഇപ്പോൾ ഇതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ സർക്യൂട്ട് പൂർത്തിയായിട്ടില്ല കാരണം R1 R2 എന്നിവ ചിത്രത്തിൽ കാണുന്നില്ല R1 || R2 ഇവിടെ ദൃശ്യമാകണം അവ ഗേറ്റിൽ നിന്ന് VDD ലേക്ക് പോകുന്നു അത് സ്മാൾ സിഗ്നൽ ഗ്രൌണ്ടിന് തുല്യമാണ് മാത്രമല്ല അവ ഗേറ്റിൽ നിന്ന് ഗ്രൌണ്ടിലേക്ക് പോകുന്നു അതിനാൽ R1 || R2 ഗേറ്റിനും ഗ്രൌണ്ടിനും ഇടയിൽ ദൃശ്യമാകുന്നു അതിനാൽ ഇപ്പോൾ ഈ സർക്യൂട്ടിനോട് യോജിക്കുന്ന പൂർണ്ണമായ സ്മാൾ സിഗ്നൽ ചിത്രമാണിത് C1 C2 എന്നിവ മതിയായ വലുതാണെന്ന ധാരണയോടെ അവ ഷോർട്ട് ആണ് അവ വളരെ വലുതാണ് അതാണ് അനുമാനം അതിനാൽ അവശ്യമായ വ്യത്യാസവും പ്രവർത്തനവും എന്താണ് ഒരേയൊരു കാര്യം യഥാർത്ഥ ഇൻപുട്ട് സോഴ്സ് vi യും MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റ് ടെർമിനലും തമ്മിൽ ഇപ്പോൾ ഒരു വോൾട്ടേജ് ഡിവിഷൻ ഉണ്ട് സോഴ്സ് ഫോളോവറുടെ ഇൻപുട്ട് പ്രതിരോധം നമ്മൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ സോഴ്സ് എവിടെയെങ്കിലും ബന്ധിപ്പിക്കുന്നു അവിടെ നോക്കുമ്പോൾ അത് അനന്തമായിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അത് അനന്തമല്ലെന്ന് ഇപ്പോൾ നമുക്കറിയാം അതെന്താണ് ഞാൻ ഇത് പ്രത്യേകം വിലയിരുത്താൻ പോകുന്നില്ല ഇത് R1 || R2 ന് തുല്യമാണെന്ന് കാണാൻ വളരെ എളുപ്പമാണ് അതിനാൽ ഇപ്പോൾ ഗേറ്റ് വോൾട്ടേജ് vi ന് തുല്യമല്ല ഗേറ്റ് വോൾട്ടേജ് vi ആയിരിക്കും viR1||R2RSR1||R2 വാസ്തവത്തിൽ കോമൺ സോഴ്സ് ആംപ്ലിഫയറുമായി നമുക്ക് സമാനമായ തരത്തിലുള്ള എക്സ്പ്രെഷൻ ലഭിച്ചിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ബയസ് ഉപയോഗിക്കുമ്പോൾ സോഴ്സ് ഫീഡ്ബാക്ക് ബയസ് എന്നാൽ ഈ സാഹചര്യം ശ്രദ്ധിക്കാൻ വളരെ എളുപ്പമാണ് R1 R2 Rs നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ അനുപാതം ഒന്നിനോട് വളരെ അടുത്തായിരിക്കും ഗേറ്റ് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിന് ഏകദേശം തുല്യമായിരിക്കും അതിനാൽ ബയസ് ക്രമീകരണം കാരണം വരുന്ന ഒരേയൊരു കാര്യം ഇതായിരിക്കും ബാക്കി എല്ലാം ഇത് പോലെ തോന്നുന്നു RL സോഴ്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ C2 ആവശ്യത്തിന് വലുതാണെങ്കിൽ അത് സോഴ്സുമായി ബന്ധിപ്പിക്കും ഇത് നല്ലതാണോ അതിനാൽ ഇത് സോഴ്സ് ഫോളോവറിന്റെ അല്ലെങ്കിൽ കോമൺ ഡ്രെയിൻ ആംപ്ലിഫയറിന്റെ സർക്യൂട്ട് പൂർത്തിയാക്കുന്നു ഇത് തികച്ചും ഉപയോഗപ്രദമായ സർക്യൂട്ടാണ് ഇത് ധാരാളം സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഞാൻ സംസാരിക്കുന്ന മൈക്രോഫോൺ അവയിൽ പലതിനും മൈക്രോഫോണിന് വളരെ ഉയർന്ന ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഉയർന്ന Rs മൂല്യം ഉണ്ടായിരിക്കും ഇനിപ്പറയുന്ന സർക്യൂട്ട് ഓടിക്കാൻ അതിന് കഴിയില്ല അതിനാൽ മൈക്രോഫോണിനെ പിന്തുടർന്ന് ഉടൻ തന്നെ ഒരു സോഴ്സ് ഫോളോവർ ഉപയോഗിക്കുന്നത് വളരെ സാധാരണമാണ് അതിനാൽ മൈക്രോഫോണിൽ നിന്ന് വരുന്ന അതേ സിഗ്നൽ നിങ്ങൾക്ക് ഇവിടെയുണ്ട് എന്നാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് വളരെ ചെറുതാണ് അതിനാൽ ഇത് വളരെയധികം ലോഡ് കയറ്റാൻ ഇടയാക്കും തന്മൂലം മൈക്രോഫോണിൽ നിന്നുള്ള സിഗ്നൽ നേടാനാവില്ല അതിനാൽ ഇത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ഇത് അടിസ്ഥാന ആംപ്ലിഫയർ ടോപ്പോളജികളിൽ ഒന്നാണ് കോമൺ സോഴ്സ് മറ്റൊന്നാണ്